കറന്റ് ബഫറിന്റെ അല്ലെങ്കിൽ ഒരു കോമൺ ഗേറ്റ് ആംപ്ലിഫയറിന്റെ സ്മാൾ സിഗ്നൽ ചിത്രം നമ്മൾ ഡിറൈവ് ചെയ്തു ഇത് ഗൈൻ ഒന്ന് നൽകുന്ന കറന്റ് നിയന്ത്രിത കറന്റ് സോഴ്സ് ആണ് ഇപ്പോൾ സർക്യൂട്ട് പൂർത്തിയാക്കുന്നതിന് അനുയോജ്യമായ ബയസ് ക്രമീകരണവുമായി നമ്മൾ ഇത് സംയോജിപ്പിക്കും MOS ട്രാൻസിസ്റ്ററിന്റെ ഗേറ്റ് ഗ്രൌണ്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഇൻപുട്ട് സോഴ്സ് ടെർമിനലുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഔട്ട്പുട്ട് ഡ്രെയിനിൽ നിന്ന് എടുത്തതാണ് ആ രീതിയിൽ ബന്ധിപ്പിച്ച ഒരു ലോഡ് റെസിസ്റ്റൻസ് ഉണ്ടെന്ന് ഞാൻ ഇപ്പോൾ അനുമാനിക്കുന്നു ഇത് തീർച്ചയായും gmvgs ആണ് സോഴ്സ് ടെർമിനൽ ഗ്രൌണ്ടുമായി ബന്ധിപ്പിച്ചിട്ടില്ലാത്തതിനാൽ മുമ്പത്തെപ്പോലെ ഏത് ബയസ് ക്രമീകരണമാണ് ഇതിന് യോജിക്കുന്നത് നമ്മൾ സോഴ്സ് ഫീഡ്ബാക്ക് ബയസ് ഉപയോഗിക്കുന്നു സോഴ്സ് ഫീഡ്ബാക്ക് ബയസിങ്ങിൽ നമ്മൾ കറന്റ് സോഴ്സ് സോഴ്സ് ടെർമിനലിലേക്ക് ബന്ധിപ്പിക്കുന്നു ബയസ് ആവശ്യങ്ങൾക്കായി ഡ്രെയിൻ സപ്ലൈ വോൾട്ടേജ് VDD യുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു കൂടാതെ ഗേറ്റ് ഒരു വോൾട്ടേജ് ഡിവൈഡർ R1 R2 ഉപയോഗിച്ച് ബയസ് ചെയ്തതാണ് അത് VDD യിൽ നിന്ന് പവർ ചെയ്യുന്നു ഇപ്പോൾ ഈ ബയസ് ചിത്രത്തിലേക്ക് നമ്മൾ ഈ സിഗ്നൽ ചിത്രം സംയോജിപ്പിക്കണം അതിനാൽ ഒന്നാമതായി ഇൻപുട്ട് സോഴ്സുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു സിഗ്നൽ ആവൃത്തി ഒരു നിശ്ചിത മൂല്യത്തിന് മുകളിലാണെന്ന് നമ്മൾ പതിവുപോലെ അനുമാനിക്കും അതിൽ dc ഉൾപ്പെടുന്നില്ല അതിനാൽ നമുക്ക് ഒരു കപ്പാസിറ്ററിലൂടെ ഇത് ജോടിയാക്കാം ഇത് ഇതുപോലെ ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് നമ്മൾ അനുമാനിക്കും എന്നിട്ട് ലോഡ് ഡ്രെയിനും ഗ്രൌണ്ടിനും ഇടയിൽ ബന്ധിപ്പിക്കേണ്ടതുണ്ട് ഇവിടെ ഡ്രെയിനേജ് VDD യുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനർത്ഥം ഇത് സ്മാൾ സിഗ്നൽ ഗ്രൌണ്ടിലേക്കോ അല്ലെങ്കിൽ ഇൻക്രിമെൻറ് ചിത്രത്തിലെ ഇൻക്രിമെൻറ് ഗ്രൌണ്ടിലേക്കോ ബന്ധിപ്പിച്ചിരിക്കുന്നു അതിൽ നിന്ന് അത് നീക്കം ചെയ്യുകയും ലോഡിലേക്ക് ബന്ധിപ്പിക്കുകയും വേണം വീണ്ടും സിഗ്നൽ ഒരു നിശ്ചിത ആവൃത്തിക്ക് മുകളിലാണെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമുക്ക് ഒരു ഇൻഡക്റ്റൻസ് L2 ഉണ്ടായിരിക്കാം അതിന്റെ റിയാക്റ്റൻസ് ലോഡ് റെസിസ്റ്റൻസിനെക്കാൾ വളരെ കൂടുതലാണ് നമുക്ക് ലോഡ് റെസിസ്റ്റൻസ് എസി കപ്ലിങ് ചെയ്യാൻ കഴിയും വോൾട്ടേജ് നിയന്ത്രിത കറന്റ് സോഴ്സിൽ നമ്മൾ ഉപയോഗിച്ച അതേ ക്രമീകരണമാണിത് ഇപ്പോൾ തീർച്ചയായും ഇൻഡക്ടറുകൾ വളരെ വലുതും നമുക്ക് അവ ഉപയോഗിക്കാൻ കഴിയുന്നുമില്ലെങ്കിൽ നമ്മൾക്ക് L2 നെ ചില റെസിസ്റ്റർ RD ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കാൻ കഴിയും നിങ്ങൾ തീർച്ചയായും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ RL ലൂടെ വൈദ്യുതധാരയുടെ ഒരു ഭാഗം മാത്രമേ ഒഴുകാൻ കഴിയൂ കാരണം നിങ്ങൾക്ക് RD അനിശ്ചിതമായി വലുത് നിർമ്മിക്കാൻ കഴിയില്ല അതിനർത്ഥം സപ്ലൈ വോൾട്ടേജ് VDD ഉണ്ടാക്കുക വളരെ വലുത് അതിനാൽ അത് ന്യായമല്ല അതിനാൽ ഈ ഡ്രെയിൻ ബയാസ് റെസിസ്റ്റർ RD യും ലോഡ് RL തമ്മിലുള്ള വൈദ്യുതധാര പങ്കിടേണ്ടിവരും പക്ഷേ അത് എങ്ങനെ വിശകലനം ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ ഞാൻ വിശദമായി അതിലേക്ക് പോകാൻ പോകുന്നില്ല നിങ്ങൾക്ക് ഒന്നുകിൽ ഈ L2 ഉപയോഗിക്കാം അത് വലിയ ഇൻഡക്റ്റൻസാണ് ഇൻഡക്റ്റൻസ് തന്നെ വലുതാണോ അല്ലയോ എന്നത് ആവൃത്തിയെ ആശ്രയിച്ചിരിക്കുന്നു ഇതിന്റെ റിയാക്റ്റൻസ് RL നേക്കാൾ കൂടുതലായിരിക്കണം നിങ്ങൾ വളരെ ഉയർന്ന ആവൃത്തിയിലേക്ക് പോയാൽ ഒരു ചെറിയ ഇൻഡക്റ്റൻസിന് ഉയർന്ന റിയാക്റ്റൻസുണ്ട് അതിനാൽ ഉയർന്ന ഫ്രീക്വൻസി സർക്യൂട്ടുകളിൽ ഇതുപോലുള്ള ഒരു ചിത്രം കാണുന്നത് വളരെ സാധാരണമാണ് കുറഞ്ഞ ഫ്രീക്വൻസി സർക്യൂട്ടുകളിൽ ഇൻഡക്റ്റൻസിന്റെ ആവശ്യമായ മൂല്യം നിങ്ങൾ ഉപയോഗിക്കാത്തത്ര വലുതായിത്തീരുന്നു മിക്കപ്പോഴും വളരെ വലുതായ ഈ ഇൻഡക്റ്റൻസിനെ ഒരു ചോക്ക് എന്നാണ് വിളിക്കുന്നത് അടിസ്ഥാനപരമായി ഇതിലൂടെ പ്രവാഹമൊന്നുമില്ല സ്മാൾ സിഗ്നൽ ഗ്രൌണ്ടിലേക്ക് പോകുന്ന വൈദ്യുതധാരയെ തടസ്സപ്പെടുത്തുന്നതായും ലോഡ് റെസിസ്റ്ററിലേക്ക് പോകാൻ അനുവദിക്കുന്നതായും നിങ്ങൾക്ക് ചിന്തിക്കാം ഗേറ്റ് സ്മാൾ സിഗ്നൽ ഗ്രൌണ്ടിലേക്ക് ബന്ധിപ്പിക്കേണ്ടതുണ്ട് നിങ്ങൾ അത് നോക്കുകയാണെങ്കിൽ അത് R1 R2 എന്നിവയിലൂടെ ഗ്രൌണ്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു യഥാർത്ഥ ചിത്രം ഇതുപോലെ കാണപ്പെടുന്നു ഗേറ്റ് ടെർമിനൽ ഇതിലൂടെ ഗ്രൌണ്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ ഇതുവരെ ഗേറ്റ് കറന്റ് പൂജ്യമാണെന്ന് നമ്മൾ അനുമാനിക്കുന്നു അതിനാൽ ഗേറ്റ് പൂജ്യമാണെങ്കിൽ ഗേറ്റും ഗ്രൌണ്ടും തമ്മിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ പോലും ഇത് പൂജ്യം വോൾട്ടിലായിരിക്കും അതിനാൽ ഇത് മതിയായതായി തോന്നുന്നു പക്ഷേ ഇത് മാറുന്നു നമ്മൾ ഇതുവരെ ഈ ഭാഗം പഠിച്ചിട്ടില്ല ഗേറ്റും സോഴ്സും തമ്മിൽ ഒരു കപ്പാസിറ്റൻസ് ഉണ്ട് ഗേറ്റിനും സോഴ്സിനും ഇടയിൽ ഒരു cgs കപ്പാസിറ്റൻസ് ഉണ്ട് അതിനാൽ നിങ്ങൾ ഇത് ഇതുപോലെ ബന്ധിപ്പിച്ചാൽ അതായത് അത് R1 R2 എന്നിവയിലൂടെ ഗ്രൌണ്ടുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സിഗ്നൽ ആവൃത്തിക്ക് ഗേറ്റ് വോൾട്ടേജ് കൃത്യമായി പൂജ്യമാകില്ല dc ഇൻക്രിമെന്റുകൾക്ക് ഇത് പൂജ്യം വോൾട്ടേജിലായിരിക്കും പക്ഷേ സിഗ്നൽ ആവൃത്തിക്ക് ഇത് കൃത്യമായി പൂജ്യമായിരിക്കില്ല അതിനാൽ നമ്മൾ എല്ലായ്പ്പോഴും ഒരു കപ്പാസിറ്ററെയും ബന്ധിപ്പിക്കുന്നു ഒരു വലിയ കപ്പാസിറ്റർ ഗേറ്റിനും ഗ്രൌണ്ടിനും ഇടയിൽ C3 എന്ന് വിളിക്കട്ടെ അത് ഗേറ്റ് ഗ്രൌണ്ടുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുന്നു ഇപ്പോൾ ഈ കപ്പാസിറ്റൻസ് ഉൾപ്പെടെയുള്ള ട്രാൻസിസ്റ്റർ മോഡലിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ല പക്ഷേ ഒരു സാധാരണ ഗേറ്റ് ആംപ്ലിഫയറിൽ നിങ്ങൾ ഒരു കപ്പാസിറ്ററിനെ ഗേറ്റിൽ നിന്ന് ഗ്രൌണ്ടിലേക്ക് ബന്ധിപ്പിക്കുന്നുവെന്ന് എടുക്കുക ഇത് എത്രമാത്രം ആയിരിക്കണം ഇത് ട്രാൻസിസ്റ്ററിന്റെ cgs നേക്കാൾ കൂടുതലായിരിക്കണം കൂടാതെ ട്രാൻസിസ്റ്ററിന്റെ cgs CoxWL ന്റെ ക്രമമാണ് MOS മോഡലിൽ നിന്ന് Cox W L എന്നീ പദങ്ങൾ നിങ്ങൾക്ക് പരിചിതമാണ് ഇപ്പോൾ തീർച്ചയായും കാരണം നമ്മൾ ഇവ പഠിച്ചിട്ടില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലായ്പ്പോഴും വളരെ വലുതായ C3 യുമായി ബന്ധിപ്പിക്കുമെന്ന് നമ്മൾ അനുമാനിക്കും അതിനാൽ ഈ പോയിന്റ് സിഗ്നൽ ആവൃത്തികൾക്കായി ഗ്രൌണ്ടിലേക്ക് ചുരുക്കിയിരിക്കുന്നു അതിനാൽ ഇത് ഇപ്പോൾ ബയസ് ഉള്ള പൂർണ്ണമായ കോമൺ ഗേറ്റ് ആംപ്ലിഫയറാണ് ഇതിന്റെ ഔട്ട്പുട്ട് ഭാഗം വോൾട്ടേജ് നിയന്ത്രിത കറന്റ് സോഴ്സിൽ നമുക്ക് ഉണ്ടായിരുന്നതിനോട് സാമ്യമുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അത് ആശ്ചര്യകരമല്ല വോൾട്ടേജ് നിയന്ത്രിത കറന്റ് സോഴ്സ് കറന്റ് നിയന്ത്രിത കറന്റ് സോഴ്സ് എന്നിവക്ക് ഔട്ട്പുട്ട് ഭാഗങ്ങൾ ഒന്നുതന്നെയാണ് അതിനാൽ ഇത് ഏതാണ്ട് സമാനമാണ് ഇപ്പോൾ ഞാൻ വീണ്ടും സർക്യൂട്ട് ഇടട്ടെ ഞാൻ ഇത് അനന്തമായി കാണിക്കും അതായത് ഇത് വളരെ വലുതാണ് അത് ഷോർട്ട് സർക്യൂട്ട് ആണ് പകരം ഞാൻ ഇപ്പോൾ ഒരു റെസിസ്റ്റർ RD കാണിക്കും കൂടാതെ നമുക്ക് ഇവിടെ മറ്റൊരു RL നൽകാം ഇപ്പോൾ നമ്മൾ ഒരു സോഴ്സ് ബന്ധിപ്പിച്ചു പക്ഷേ പലപ്പോഴും വോൾട്ടേജുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്നു അതിനാൽ ഇത് കറന്റ് നിയന്ത്രിത കറന്റ് സോഴ്സ് ആണെങ്കിലും നമ്മൾ ഒരു വോൾട്ടേജ് സോഴ്സ് സീരീസിൽ ഒരു റെസിസ്റ്റൻസുമായി ബന്ധിപ്പിക്കുന്നു അതിനാൽ vi സീരീസിൽ ഇപ്പോൾ തീർച്ചയായും ഈ ഭാഗം ആ ദിശയിൽ കറന്റ് സോഴ്സ് viRs കൾക്ക് തുല്യമാണെന്ന് നിങ്ങൾക്കറിയാം നമ്മൾ ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്ന വൈദ്യുതധാരയുടെ ദിശ താഴേക്ക് പോകുന്നു അതേസമയം അപ്പർ ടെർമിനൽ പോസിറ്റീവ് ഉള്ള vi ഉണ്ടെങ്കിൽ അത് ഒരു റെസിസ്റ്റൻസിന് സമാന്തരമായി മുകളിലായിരിക്കും അതിനാൽ ഇത് മുമ്പത്തെപ്പോലെ തന്നെ പ്രവർത്തിക്കുന്നു ഇവിടെയുള്ള ഈ വൈദ്യുതധാര ഏകദേശം viRs കൾക്ക് തുല്യമാണ് -viRs കൾ കാരണം ഇതിന്റെ ധ്രുവത വിപരീതമാണ് ഈ സാഹചര്യത്തിൽ ഇവിടെ ഈ io ഇൻപുട്ട് കറന്റിന് ഏകദേശം തുല്യമായിരുന്നു പക്ഷേ ഇൻപുട്ട് കറന്റ് താഴേക്ക് ചൂണ്ടുന്നു അതിനാൽ ഈ സാഹചര്യത്തിൽ io viRs ഔട്ട്പുട്ട് കറന്റിനുപകരം നിങ്ങൾ വീണ്ടും ഔട്ട്പുട്ട് വോൾട്ടേജ് എടുക്കുകയാണെങ്കിൽ ഈ vo എന്തായിരിക്കും അത് -ioRD||RL ആയിരിക്കും ഷോർട്ട് സർക്യൂട്ട് ആകാൻ C2 വലുതാണെന്ന് ഇത് അനുമാനിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഒരു വോൾട്ടേജ് സോഴ്സ് ഇൻപുട്ടിനൊപ്പം ഔട്ട്പുട്ട് വോൾട്ടേജ് viRD||RLRs അതിനാൽ നിങ്ങൾക്ക് ഇത് ഒരു വോൾട്ടേജ് ഇൻപുട്ട് ഉപയോഗിച്ച് ഉപയോഗിക്കാൻ കഴിയും തീർച്ചയായും ഈ സാഹചര്യത്തിൽ ഗൈൻ ലോഡ് റെസിസ്റ്റൻസിനെയും സോഴ്സ് റെസിസ്റ്റൻസിനെയും ആശ്രയിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾ ഒരു വോൾട്ടേജ് ഇൻപുട്ട് പ്രയോഗിച്ച് വോൾട്ടേജ് ഔട്ട്പുട്ട് എടുക്കുന്നതിനാൽ ഇത് വോൾട്ടേജ് നിയന്ത്രിത വോൾട്ടേജ് സോഴ്സ് ആണെന്ന് അർത്ഥമാക്കുന്നില്ല ഒരു നല്ല വോൾട്ടേജ് നിയന്ത്രിത വോൾട്ടേജ് സോഴ്സിന് വളരെ കുറഞ്ഞ ഔട്ട്പുട്ട് റെസിസ്റ്റൻസും ഉയർന്ന ഇൻപുട്ട് റെസിസ്റ്റൻസും ഉണ്ടായിരിക്കണം ഇതിന് കൃത്യമായി വിപരീതമാണുള്ളത് ഇൻപുട്ട് റെസിസ്റ്റൻസ് വളരെ കുറവാണ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് വളരെ ഉയർന്നതാണ് അതിനാൽ ഇത് ശരിക്കും കറന്റ് നിയന്ത്രിത കറന്റ് സോഴ്സ് ആണ് എന്നാൽ നിങ്ങൾക്ക് ഇത് ഒരു വോൾട്ടേജ് സോഴ്സ് ഉപയോഗിച്ച് റെസിസ്റ്റൻസുമായി സീരീസിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയും കൂടാതെ വോൾട്ടേജിനെ ഔട്ട്പുട്ടായി കണക്കാക്കാം അത്തരം സന്ദർഭങ്ങളിൽ ഗൈൻ ചില റെസിസ്റ്റർ അനുപാതമായിരിക്കും അത് കൃത്യമായി സജ്ജീകരിക്കാനും ചിലപ്പോൾ ഇത് ഇതുപോലെ ഉപയോഗിക്കാനും കഴിയും അതിനാൽ ഈ സാധാരണ ഗേറ്റ് ആംപ്ലിഫയർ കാണുമ്പോൾ ചിലപ്പോൾ വോൾട്ടേജ് ഇൻപുട്ട് ഉപയോഗിച്ച് നിങ്ങൾ കാണും ഗൈൻ ഇതാണ് തീർച്ചയായും ഇതാണ് ഏകദേശ ഗൈൻ നിങ്ങൾ കൃത്യമായ മൂല്യം ഉപയോഗിക്കുകയാണെങ്കിൽ വീണ്ടും ഞാൻ ട്രാൻസിസ്റ്ററിന്റെ rds നെ അവഗണിച്ചു മറ്റ് കാര്യങ്ങൾക്കുള്ള ഔട്ട്പുട്ട് റെസിസ്റ്റൻസിന് rds പ്രധാനമാണെന്ന് ഞാൻ പറഞ്ഞതുപോലെ ഇത് ചെറിയ മാറ്റം വരുത്തുന്നു മറ്റൊന്നുമല്ല ഇപ്പോൾ ഈ io viRs ആണെന്ന് നമുക്കറിയാം പക്ഷേ ഇത് ശരിക്കും -viRsgmgmGs ആണ് അതിനാൽ ഈ നമ്പർ ഒന്നിന് അടുത്താണ് പക്ഷേ കൃത്യമായി ഒന്നല്ല അതിനാൽ യഥാർത്ഥ ഔട്ട്പുട്ട് വോൾട്ടേജ്viRD||RLRsgmgmGs ആയിരിക്കും ഇതും gmRsgmRs1 എന്ന് എഴുതാം അതിനാൽ gmRs 1 ഉള്ളിടത്തോളം ഇത് gmRs 1 ആണെങ്കിൽ ഇത് കുറയ്ക്കുന്നു അതിനാൽ ഇത് കോമൺ ഗേറ്റ് ആംപ്ലിഫയറിനെക്കുറിച്ചാണ് ഇത് ഗൈൻ ഒന്ന് തരുന്ന കറന്റ് നിയന്ത്രിത കറന്റ് സോഴ്സ് ആണ് ഇത് കറന്റ് ബഫറാണ് അതിനാൽ ഇത് ചെയ്യുന്നത് ഒരു മോശം കറന്റ് സോഴ്സ് എടുക്കുന്നു എന്നതാണ് ഈ കറന്റ് സോഴ്സിന് ഒരു റെസിസ്റ്റൻസ് Rs ഉണ്ട് അത് നിങ്ങൾക്ക് അതേ കറന്റ് നൽകുന്നു പക്ഷേ വളരെ ഉയർന്ന റെസിസ്റ്റൻസിലായിരിക്കും ഇവിടെ നോക്കുമ്പോൾ റെസിസ്റ്റൻസ് gmRsrdsrdsRs ആണെന്ന് നിങ്ങൾക്കറിയാം ഈ പദം കാരണം ഇവിടെ കാണുന്ന റെസിസ്റ്റൻസ് Rs നേക്കാൾ വളരെ ഉയർന്നതാണ് അതിനാൽ ഇത് നിങ്ങൾക്ക് മികച്ച കറന്റ് സോഴ്സ് നൽകുന്നു ഇത് കൃത്യമായി വോൾട്ടേജ് ബഫർ പോലെയാണ് വോൾട്ടേജ് ബഫറിന് ഉയർന്ന സീരീസ് റെസിസ്റ്റൻസുള്ള ഒരു വോൾട്ടേജ് സോഴ്സ് എടുക്കാൻ കഴിയും എന്നിട്ട് അതിനെ മികച്ച വോൾട്ടേജ് സോഴ്സ് ആക്കി മാറ്റാൻ കഴിയും അതേ വോൾട്ടേജ് തന്നെ എന്നാൽ വളരെ ചെറിയ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഉപയോഗിച്ചായിരിക്കും അതിനാൽ ഈ കറന്റ് ബഫർ സമാന ഉദ്ദേശ്യത്തിനായി പ്രവർത്തിക്കുന്നു ഇത് വളരെ വ്യാപകമായി ഉപയോഗിക്കുന്ന ബിൽഡിംഗ് ബ്ലോക്ക് കൂടിയാണ് ഇപ്പോൾ കപ്പാസിറ്റൻസ് മൂല്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതിനകം തന്നെ ഇവ കണക്കാക്കിയിട്ടുണ്ട് അതിനാൽ ഞാൻ അതിലൂടെ പോകുന്നില്ല C2 ന്റെ മൂല്യം നമ്മൾ ഇത് നിരവധി തവണ കണക്കാക്കി C2 ഷോർട്ട് സർക്യൂട്ട് പോലെയാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് C2 നെ ഒരു ഷോർട്ട് സർക്യൂട്ട് ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുന്നതിന് തുല്യമാണ് അപ്പോൾ C2 ന്റെ റിയാക്റ്റൻസ് RDRL ആയിരിക്കും എന്നാൽ ഡ്രെയിൻ വോൾട്ടേജും ഔട്ട്പുട്ട് വോൾട്ടേജും ഏതാണ്ട് ഒരുപോലെയാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ C2 ന്റെ റിയാക്റ്റൻസ് RLനേക്കാൾ വളരെ ചെറുതായിരിക്കണം അതുപോലെ നിങ്ങൾക്ക് ഇത് C1 നായി കണക്കാക്കാം C1 ന്റെ റിയാക്റ്റൻസ് അതിലുടനീളം ദൃശ്യമാകുന്നതിനേക്കാൾ വളരെ ചെറുതായിരിക്കണം അത് Rs1gm ആണ് മറ്റ് സന്ദർഭങ്ങളിൽ നമ്മൾ ഇവ കണക്കാക്കിയതിനാൽ നമുക്ക് ഇവ കണക്കാക്കാമെന്ന് ഞാൻ കരുതുന്നു അതിനാൽ ഞാൻ അതിലൂടെ വീണ്ടും പോകാൻ പോകുന്നില്ല അതിനാൽ അത് കറന്റ് നിയന്ത്രിത കറന്റ് സോഴ്സ് അല്ലെങ്കിൽ കോമൺ ഗേറ്റ് ആംപ്ലിഫയർ പൂർത്തിയാക്കുന്നു വീണ്ടും സാധാരണ ഗേറ്റ് ആംപ്ലിഫയർ അടിസ്ഥാന ബിൽഡിംഗ് ബ്ലോക്കായി അവതരിപ്പിക്കപ്പെടുന്നു ഇപ്പോൾ നമ്മൾ ഇത് ഒരു ഫീഡ്ബാക്ക് നെറ്റ്വർക്കായി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു അത് vgs ഉചിതമായ രീതിയിൽ ക്രമീകരിച്ചുകൊണ്ട് ഔട്ട്പുട്ട് കറന്റിനെ ഇൻപുട്ട് കറന്റിന് തുല്യമാകാൻ പ്രേരിപ്പിക്കുന്നു